എന്തിനാണ് ഞാൻ ഇവിടെ ഒരു ചോദ്യചിഹ്നം ഇട്ടത് എന്ന് ഊഹിക്കാമോ എന്ന് തീരുമാനിക്കുന്നത് 1D ൽ പ്രശ്നമില്ല 1 ഡൈമെൻഷനിൽ നെ 1 എന്ന് തീരുമാനിക്കാം ഉയർന്ന ഡൈമെൻഷനിലേക്ക് പോവുമ്പോൾ എന്ത് സംഭവിക്കും 2D യുടെ കേസിൽ എന്തായിരിക്കും 3D യിൽ അത് ആയിരിക്കും ഇപ്പോൾ എനിക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല ഇത് 1 നേക്കാൾ കുറവായിരിക്കണം അത്കൊണ്ട് എനിക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ കഴിയില്ല കാരണം ഞാൻ അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും എനിക്ക് വേവ് പോലത്തെ സൊല്യൂഷൻ കിട്ടില്ല അത് അസ്ഥിരമായ സ്ഥിതി ആയിരിക്കും അപ്പോൾ ഇത് എങ്ങനെ നിങ്ങൾ കൈകാര്യം ചെയ്യും രണ്ടാമത്തെ സൊല്യൂഷൻ ഫിക്സ് ചെയ്യണം നിങ്ങളുടെ ഡിസ്ക്രിടൈസേഷൻ മികച്ചതാക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ സൊല്യൂഷൻ അതായത് നമുക്ക് ഉള്ള അതേ ഡിസ്ക്രീറ്റ് വേർഷൻ ഈ ഇക്വേഷനിലേക്ക് നോക്കിയാൽ ഈ വേവ് ഇക്വേഷൻ കൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് 2D യുടെ കേസിൽ എന്ത് സംഭവിക്കും എനിക്ക് y യുടെ രണ്ടാമത്തെ ഡെറിവേറ്റീവ് കിട്ടും ഈ ഡിസ്പെർഷൻ റിലേഷൻ എങ്ങനെ പരിഷ്ക്കരിക്കാൻ കഴിയും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് വളരെ ശരിയാണ് ഈ ഡിസ്പ്പേർഷൻ റിലേഷൻ എന്താവും ഫൈനൈറ്റ് ഡിഫറെൻസസ് ടൈം ഡോമെയിൻ ഉപയോഗിച്ചാൽ എനിക്ക് കിട്ടാൻ പോവുന്നത് ഇവിടെ എഴുതാം എനിക്ക് 2 ടെർമുകൾ കിട്ടും ഒന്ന് ൽ നിന്നും മറ്റേത് ൽ നിന്നും ഇനി നമുക്ക് ഡിസ്പെർഷൻ ഡയഗ്രാം ഉണ്ടാക്കാൻ മുമ്പത്തെ സ്ലൈഡിൽ ചെയ്ത അതേ വിശകലനം ഇവിടെയും ചെയ്യാം എന്താണ് ഡിസ്പ്പേർഷൻ യും k യും തമ്മിലുള്ള ബന്ധം ഒപ്റ്റിക്സിൽ ആണെങ്കിലും ഇലക്ട്രോമാഗ്നെറ്റിക്സിൽ ആണെങ്കിലും ഫ്രീക്വൻസിയും വേവ് വെക്ടറും തമ്മിലുള്ള ബന്ധത്തെ ആണ് ഡിസ്പ്പേർഷൻ എന്ന് പറയുന്നത് ഇതാണ് പ്രശ്നം ചെറിയ ആണ് ഒരേ ഒരു പരിഹാരം 1D യിൽ നമുക്ക് ആക്കി പരിഹരിക്കാം അവിടെ ഇത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് 2D യിലും 3 D യിലും എനിക്ക് ഒരു വഴിയും ഇല്ല ഇതിന്റെ വ്യക്തമായ ഒരു അനന്തരഫലം എന്താണ് ഉദാഹരണമായി ലേസർ പൾസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം എനിക്ക് ഒരു ലേസർ പൾസ് സിമുലേറ്റ് ചെയ്യണം അത് പോയി ചില ഇലക്ട്രോമാഗ്നെറ്റിക് റിസോണേറ്റർ അഥവാ കാവിറ്റി യെ ഇടിക്കും ഈ ലേസർ പൾസ് ഫ്രീ സ്പേസിൽ ആണ് സഞ്ചരിക്കുന്നത് അത് ന്യൂമറിക്കലി ഡിസ്പെർസ് ആവും കാരണം ഇത് ഒരു പാട് വ്യത്യസ്ത ഫ്രീക്വൻസികളിൽ ആണ് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷെ ഓരോ ഫ്രീക്വനസിക്കും ഓരോ വെലോസിറ്റി ഉണ്ട് ഇവിടെ ഉള്ള ഈ കർവ് നോക്കുകഓരോ വ്യത്യസ്ത ക്കും വ്യത്യസത k ഉണ്ടാവും വിദ്യാർത്ഥി ഡെൽറ്റ എന്തിനോടാണ് സമം ആയിരുക്കന്നത് Refer Time 0427 അതേ ഞാൻ ഡിസ്ക്രിടൈസേഷൻ ഫിക്സ് ചെയ്താൽ ഓരോ ഓമെഗ യിലും ഉള്ള യും k യും തമ്മിലുള്ള ബന്ധം ഞാൻ മാറ്റും ഞാൻ ഇൻപുട് പൾസ് ഇതുപോലെഗൌസ്സിയൻ പൾസ് ഇത് പോലെ അയക്കുന്നെന്ന് വിചാരിക്കുകഔട്ട്വേഡ് ഡിസ്ടോർട്ടഡ്ആവും ഔട്ട്പുട് പൾസ് എന്ന് വെച്ചാൽ കുറച്ചു സ്പേസിനും ടൈമിനും ശേഷമുള്ള പൾസ് കാരണം ആ പൾസ് ഉണ്ടാക്കാൻ അതിൽ ഉള്ള ഫ്രീക്വൻസികൾവ്യത്യസ്ത സ്പീഡിൽ സഞ്ചരിക്കുന്നു അവ എല്ലാം ഒരേ സ്പീഡിൽ ആണ് സഞ്ചരിക്കുന്നതെങ്കിൽ എനിക്ക് ഒരേ പൾസ് കിട്ടും ഇതിനെയാണ് പൾസ് ഡിസ്റ്റോർഷൻpulse distortion എന്ന് പറയുന്നത് ഉദാഹരണമായി ഒപ്റ്റിക്കൽ ഫൈബറിൽനടക്കുന്നത് ഇതാണ് കാരണം ഗ്ലാസ് ഡിസ്പെർസീവ് മീഡിയം ആണ് ഒപ്റ്റിക്കൽ ഫൈബർ ഗ്ലാസിൽഎല്ലാ ഫ്രീക്വൻസികളും വ്യത്യസ്ത സ്പീഡിൽ ആണ് സഞ്ചരിക്കുന്നത് ഇത് എന്തായാലും ഭൌതികമായി സംഭവിക്കുന്നതാണ് പക്ഷെ ഞാൻ ഫ്രീ സ്പേസ് സിമുലേറ്റ് ചെയ്താൽ ഇത് സംഭവിക്കില്ല പക്ഷെ FDTD യിൽ ഇത് സംഭവിക്കും പിന്നെയും ഇത് എതിരിടാൻ ഉള്ള വഴി ചെറിയ ആണ് അപ്പോൾ പൾസ് ഡിസ്ട്ടോർഷന്എന്ത് സംഭവിക്കും ഇത് ഉയർന്ന ഡൈമെൻഷനിലേക്ക് കൊടുത്താൽ അവിടെ വേറെ ഒരു കാര്യം ഉണ്ട് നിങ്ങൾ ഇത് വിടേണ്ടി വരും എന്നിട്ട് വീണ്ടും ചെറുതാക്കും ഇത്പോലെ ഉള്ള ഒരു 2D ഗ്രിഡ് സങ്കൽപ്പിക്കുക ഞാൻ ഒരു വേവ് ഒരു പൾസ് ഇത് പോലെ അയക്കുന്നു അത് ഡിസ്റ്റോർട് ആവുന്നു ഇനി ഞാൻ ഇത് വേറൊരു ദിശയിലേക്ക് അയക്കുന്നു എന്ത് സംഭവിക്കും കാരണം ഈ ഡിസ്ക്രിടൈസേഷൻ ഫൈനൈറ്റ് ആണ് അപ്രോക്സിമേഷൻ ചെറുതായി വ്യത്യാസപ്പെടുന്നു അതായത് ഗ്രിഡിൽ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ വേവ് വ്യത്യസ്ത സ്പീഡിൽ സഞ്ചരിക്കുന്നു അതിനാൽ ഈ വേവും ഈ വേവും ഞാൻ ഒറ്റ ഫ്രീക്വൻസി ടോൺഅയച്ചാൽ അത് ഇവിടെ വ്യത്യസ്ത സ്പീഡിൽ സഞ്ചരിക്കും അവിടെ വിദ്യാർത്ഥി 45 ഞാൻ ഇത് 45 ഡിഗ്രീസ് ആയി എടുക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും ആംഗിൾ എടുക്കാം വേവ് ഇക്വേഷൻ അപ്രോക്സിമേറ്റ് ചെയ്യാൻ ഞാൻ ഫൈനൈറ്റ് ഡിഫറെൻസസ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഗ്രിഡ് എങ്ങനെ വിന്യസിപ്പിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ കൃത്യത കൂടുതലോ കുറവോ ആയിരിക്കും അതായത് വ്യത്യസ്ത ദൂരത്തിൽ വ്യത്യസ്ത സ്പീഡുകൾ ഐസോട്രോപിക് എന്നത് മീഡിയത്തിന്റെ ഭൌതികഗുണങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് വായു ഐസൊട്രോപിക് മീഡിയംആണ് പക്ഷെ ഞാൻ സ്പേസും ടൈമും ഡിസ്ക്രിടൈസ്ആരാണ് സ്പേസും ടൈമും ഡിസ്ക്രിടൈസ്ചെയ്യുന്നത്സ്വാഭാവികമായി നടക്കുന്നതല്ല നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽചെയ്യുന്നതാണ് നമ്മൾ അത് ചെയ്യുന്ന നിമിഷം നമ്മൾ ഇതുവരെ ഇല്ലാത്ത അനൈസോട്രോപിക് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നു ഇതിനെയാണ് ഗ്രിഡ് അനൈസോട്രോപിഎന്ന് പറയുന്നത് യഥാർത്ഥ ജീവിതത്തിലെ ഏത് സിമുലേഷനിലും ഈ പിശകുകൾ ഉണ്ടാവും പിശകുകൾ ഒന്നും ഇല്ലാത്ത സിമുലേഷൻ എന്നൊന്ന് ഇല്ല ളരെ ചെറുത് ആവുമ്പോഴാണ് എല്ലാം തികഞ്ഞ സിമുലേഷൻ നടക്കുന്നത് യഥാർത്ഥ കമ്പ്യൂട്ടേഷണൽ EM നിങ്ങളുടെ കോഡ് എഴുതുന്നു പക്ഷെ അതിനു ശേഷം നോൺ സൊല്യൂഷനുകൾ ഉപയോഗിച്ച് നിങ്ങൾ അതിനെ ബെഞ്ച് മാർക്ക് ചെയ്യണം ഉദാഹരണമായി നിങ്ങൾ ഒരു 2D FDTD കോഡ് എഴുതുന്നു നിങ്ങൾ വിചാരിക്കുന്നു എല്ലാം നല്ല രീതിയിൽ ആണെന്ന് അതിനു ശേഷം നിങ്ങൾ വ്യത്യസ്ത ദിശകളിൽ പൾസ് അയക്കുന്നുഅപ്പോൾ അത് ആസ്വാഭാവികമായി പെരുമാറുന്നത് നിങ്ങൾക്ക് കാണാം അടുത്ത ഘട്ടം പാരമീറ്റരുകളെ കണ്ട് പിടിക്കലാണ് ആണോ അഥവാ കുറാന്റ് പരാമീറ്ററുകൾ ആണോ അതായത് 1 മാത്രമേ ഡിസ്പെർഷൻ സ്വീകാര്യം ആവുകയുള്ളൂ20 ആവില്ല നിങ്ങൾ ചില ത്രെഷോൾഡിൽ എത്തുന്നത് വരെ നിങ്ങളുടെ ഡിസ്ക്രിടൈസേഷൻമികച്ചതാക്കണം എന്തായിരിക്കണം ആ ത്രെഷോൾഡ് ഉദാഹരണമായി ഇവിടെ എന്റെ സിമുലേഷൻഡോമെയിൻ ചില നിശ്ചിത മൂല്യം ആണ് വേവ് ഇടത് നിന്നും വലത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഡിസ്പെർഷൻപ്രതിഭാസം കൂടി കൂടി വരുന്നു ഞാൻ വലത്തെ അറ്റത്തു എത്തുമ്പോൾ അതായത് സിമുലേഷൻ ഡോമെയിനിന്റെരണ്ട് ദൂരെയുള്ള പോയന്റുകളിൽ എത്തുമ്പോൾ അത് എനിക്ക് നേരത്തെ തീരുമാനിക്കാൻ കഴിയും അവിടെ ഉണ്ടാവുന്ന ഡിസ്പെർഷൻഇതിൽ കൂടാൻ പാടില്ല എനിക്ക് അത് നേരത്തെ തീരുമാനിക്കാം അത് കിട്ടിക്കഴിഞ്ഞാൽ പാരാമീറ്ററുകൾ ഉപയോഗിച്ച് എനിക്ക് ബാക്കിയുള്ള സിമുലേഷനുകൾ ചെയ്യാൻ സാധിക്കും യഥാർത്ഥത്തിൽ ആദ്യത്തെ സ്ഥലത്തു കോഡ് എഴുതുന്ന സമയം തന്നെ ഇത് എടുക്കും വിദ്യാർത്ഥി കുറാന്റ് നിങ്ങൾക്ക് ഡിസ്പെർഷൻ ഇഫെക്റ്റുകൾശരിയാക്കാൻ കഴിയും പക്ഷെ ഇത് വാക്വംമാത്രമാണെങ്കിൽ FDTD ചെയ്യേണ്ട ആവശ്യം എന്താണ് എല്ലായിടത്തും പ്ലെയിൻ വേവ്ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് അവിടെ മീഡിയം ഉണ്ടാകുമ്പോഴാണ് ചില എയർക്രാഫ്റ്റ്സ്അഥവാ വേറെ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവ ശരിയാക്കൽ നടക്കുന്ന കാര്യമല്ല കാരണം നിങ്ങളുടെ ഫൈനൈറ്റ് ഡിഫറെൻസെസിൽ കൂടുതൽ തിരുത്തലുകൾ എങ്ങനെ നടത്തും മാത്രമല്ല ആ തിരുത്തലുകൾ ദിശയെ ആശ്രയിച്ചായിരിക്കും അതിനാൽ നിങ്ങൾ തിരുത്താൻ ശ്രമിച്ചാൽ കൂടുതൽ ഇഫെക്റ്റുകൾകൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അതിനാൽ നിങ്ങൾ അതിനോട് പൊരുത്തപ്പെടുക ഇന്റഗ്രൽ ഇക്വേഷൻഉപയോഗിക്കാൻ തോന്നും പക്ഷെ ഇന്റഗ്രൽ ഇക്വേഷനുകൾ നമ്മൾ രൂപപ്പെടുത്തിയത് ഒറ്റ ഫ്രീക്വൻസിയിൽ ആണ് അതിനാൽ ഇന്റഗ്രൽ ഇക്വേഷനിൽ പൾസ് ഡിസ്ട്ടോഷനിലേക്ക് നോക്കാൻ എനിക്ക് ഫോറിയർ ട്രാൻസ്ഫോംfourier tചെയ്യേണ്ടി വരും അതേ അത് നല്ല ഒരു പോയിന്റ് ആണ് അതിനാൽ ഇന്റഗ്രൽ ഇക്വേഷനുകൾപ്രോബ്ലമുകൾ കമ്പ്യൂട്ടേഷൻ വഴി സോൾവ് ചെയ്യാനുള്ള കൃത്യത യുള്ള വഴിയാണ് FDTD ബ്രൂട്ട് ഫോഴ്സ് പോലെയാണ് കുറെ ബുദ്ധിമുട്ടിയാണ് അവ ഉത്തരം തരുന്നത് എന്നിട്ടും അത്ര നല്ലതായിരിക്കില്ല വിദ്യാർത്ഥി അതാണ് ഏറ്റവും മോശം എന്ന് പറയുന്നത് അതേ വിദ്യാർത്ഥി അപ്പോൾ ഇത് തുടർച്ചയായ ഫ്രീക്വൻസി പോലെയാണോ അതേ വിദ്യാർത്ഥി അതിനാൽ അതിനാൽ നിങ്ങൾ യഥാസമയം ഗോസ്സിയൻ പൾസ് എടുക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി ഗോസ്സിയൻ ആയിരിക്കും വിദ്യാർത്ഥി വേറൊരു സൈഡിൽ ഡിസ്ക്രിടൈസേഷന്റെ ലക്ച്ചർ വീഡിയോ തുടരുമോ അതേ വിദ്യാർത്ഥി അതിനെക്കുറിച്ച് എനിക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ലഞാൻ ഡിസ്ക്രിടൈസ് ചെയ്തിട്ടുണ്ട്ഒരു തവണ ഞാൻ സോഴ്സ് സെറ്റ് ചെയ്താൽ വേവ് സഞ്ചരിക്കുംഅപ്ഡേറ്റ് ഇക്വേഷൻ അത് ശ്രദ്ധിക്കും വിദ്യാർത്ഥി ഇന്റെഗ്രൽ ഇന്റെഗ്രൽ ഇക്വേഷന് വേണ്ടി ഞാൻ ഫ്രീക്വൻസിയിൽ ഡിസ്ക്രിടൈസ് ചെയ്യണം ഓരോ ഫ്രീക്വൻസിയിലും സോൾവ് ചെയ്തു ഒരുമിച്ചക്കണം വിദ്യാർത്ഥി ഈ ഡിസ്സ്ക്രിടൈസേഷൻ ഫ്രീക്വൻസിക്ക് ഉത്തരം തരാൻ കഴിയുമോ അതേഡിസ്ക്രിടൈസിങ് ഫ്രീക്വൻസിഅതിന്റെ തന്നെ തെറ്റുകൾ കൊണ്ട് വരും നിങ്ങൾ ഫ്രീക്വൻസിയിൽഎത്ര നന്നായി ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചയിരിക്കും യഥാസമയത്തുള്ള നിങ്ങളുടെ സൊല്യൂഷന്റെകൃത്യത അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടേഷന് എത്ര സമയം മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് ട്രേഡ് ഓഫ് ചെയ്യാം ഒപ്ടിക്സ് കമ്മ്യൂണിറ്റി യിൽ എങ്കിലും ഇന്റഗ്രൽ ഇക്വേഷൻ വലിയ ജനകീയമല്ല ജനങ്ങൾ FDTD ചെയ്യും എന്നിട്ട് ഡിസ്ക്രിടൈസേഷന്റെബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും നിങ്ങൾക്ക് കൂടുതൽ കൃത്യത വേണമെങ്കിൽ ക്രാങ്ക് അപ്പ് ചെയ്യണം ഒരു തവണ നമ്മൾ ഇത് കമ്പ്യൂട്ടറിലേക്ക് ഇട്ടാൽ നമുക്ക് കാണാൻ കഴിയില്ല കുറെ കോംപ്ലക്സ് നമ്പറുകൾഅല്ലാതെ അപ്പോൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങൾക്ക് അനുയോജ്യമാവും പക്ഷെ 1D യിലും ആൽഫ 1 നോട് സമം അല്ലെങ്കിൽ അത് ലൈറ്റ് ന്റെ സ്പീഡിൽ സഞ്ചരിക്കില്ല ഇത് തന്നെയാണ് കൃത്യമായി നമ്മൾ ഇവിടെ കണ്ടത് നിങ്ങൾ ഡിസ്പെർഷൻ റിലേഷനിലേക്ക് നോക്കിയാൽ അവിടെ മീഡിയം ഇല്ലെങ്കിൽ പോലും ഫൈനൈറ്റ് ആയിരിക്കുമ്പോൾ വിദ്യാർത്ഥി 1D ക്കും സമയത്തിനും സമം ആയ ആൽഫ കൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ അതെഞാൻ ആൽഫ ഒന്നിനോട് സമം ആണെന്ന് പറഞ്ഞാൽ1D യിൽ ഒരു ഡിസ്ട്ടോർഷനുംപറയരുത് പക്ഷെ മറ്റു സ്ഥലങ്ങളിൽ അതിനോട് യോജിക്കേണ്ടി വരും ഇവയാണ് പീറ്റർസൺസ് ബുക്ക്Petersons bookലേ 12 ആം അദ്ധ്യായത്തിനയുള്ള റെഫെറെൻസുകൾ ഇത് വളരെ നല്ല റഫറൻസ് ആണ് ഇത് ടാഫ്ലോവിന്റെ ബൈബിൾ ഓഫ് FDTD എന്നാണ് അറിയപ്പെടുന്നത്ആദ്യം എഴുതിയ പുസ്തകങ്ങളിൽ ഒന്നാണ് ഇത് ഞാൻ ടാഫ്ലോവിന്റെ മാക്സ്വെൽസ് ഇക്വേഷനെ Maxwells equation കുറിച്ചും FDTD യെ കുറിച്ചുമുള്ള ഒരു അഭിമുഖം കണ്ടിരുന്നു നിങ്ങൾ അത് വായിക്കണം മാക്സ്വെൽസ് ഇക്വേഷന്റെMaxwells equation ചരിത്രം അത് എവിടെ ഒക്കെ പോകുന്നു എന്നിങ്ങനെ ഉള്ള കാര്യങ്ങൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്